ഫീൽഡ് സിദ്ധാന്തത്തിൽ നമുക്ക് ചില പ്രശ്നങ്ങൾ ചെയ്യാം അതുവഴി മുമ്പത്തെ വീഡിയോകളിൽ നമ്മൾ വികസിപ്പിച്ചെടുത്ത എല്ലാ സിദ്ധാന്തങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നു ചില ലളിതമായ പ്രശ്നങ്ങളിൽ നിന്ന് ആരംഭിക്കാം എഫ് ഏതെങ്കിലും ഫീൽഡ് ആകട്ടെ F ൽ Q അല്ലെങ്കിൽ Z mod p Z ഉണ്ടെന്ന് തെളിയിക്കുക ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമല്ല കാരണം ചില പ്രൈം പി യുടെ ഫീൽഡ് തിയറിയുടെ പ്രധാന ആരംഭ പോയിന്റ് ഇത് പിടിച്ചെടുക്കുന്നു എഫ് ഏതെങ്കിലും ഫീൽഡ് ആകട്ടെ F ൽ Q അല്ലെങ്കിൽ Z mod p Z ഉണ്ടെന്ന് തെളിയിക്കുക നമ്മൾ ഇത് പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് വളരെ എളുപ്പമാണ് Q അല്ലെങ്കിൽ Z മുതൽ F വരെ ഇർറെഡ്യൂസിബിൾ റിംഗ് ഹോമോമോർഫിസം പരിഗണിക്കുക ഓരോ റിങ്ങിനും യൂണിറ്റിയോടുകൂടിയ കമ്മ്യൂട്ടേറ്റീവ് റിംഗിന് പൂർണ്ണസംഖ്യകളുടെ റിങ്ങിൽ നിന്ന് അതിലേക്ക് ഒരു യുണീക്ക് മാപ്പ് ഉണ്ട് ഇസഡ് മുതൽ എഫ് വരെയുള്ള യുണീക്ക് റിംഗ് ഹോമോമോർഫിസം പരിഗണിക്കുക ഒരു ഇന്റഗ്രൽ ഡൊമെയ്നിന്റെ ഉപറിംഗ് ഒരു ഇന്റഗ്രൽ ഡൊമെയ്നും ആണെന്ന് ആദ്യത്തെ ഐസോമോർഫിസം സിദ്ധാന്തത്തിലൂടെ നമുക്കറിയാം ഇസഡിന്റെ പ്രധാന ഐഡിയലാണ് കേർണൽ φ എന്ന് നമുക്കറിയാം ഫൈനൈറ്റ് ആയ ഫീൽഡുകളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഇത് വന്നു ഇത് ഇസഡിന്റെ പ്രധാന ഐഡിയലാണ് കേർണൽ φ 0 ആണെങ്കിൽ രണ്ട് കേസുകളുണ്ട് φ ഇൻജെക്റ്റീവ് ആണ് ഇസഡിന്റെ പ്രധാന ഐഡിയലുകൾ എന്തൊക്കെയാണ് ഇവ 0 ഐഡിയലുകൾ അല്ലെങ്കിൽ ഒരു പ്രൈം സംഖ്യയാൽ സൃഷ്ടിക്കപ്പെട്ടവയാണ് ഇത് 0 ഐഡിയലാണെങ്കിൽ അത് ഇൻജെക്ടിവ് ആണ് അതിനർത്ഥം ഇസഡ് എഫിൽ അടങ്ങിയിരിക്കുന്നു എനിക്ക് ഇസഡിനെ എഫിന്റെ ഒരു ഉപ വലയമായി കണക്കാക്കാൻ കഴിയും കാരണം ഐസോമോർഫിക് പകർപ്പ് ഇസഡ് ആയി പരിഗണിക്കുന്നതിലൂടെ ഇസഡിന് എഫിന്റെ ഒരു ഐസോമോർഫിക് കോപ്പി ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ Q ലഭിക്കും പക്ഷേ F എന്നത് ഓരോ പോസിറ്റീവ് സംഖ്യയായതിനാൽ ഓരോ നെഗറ്റീവ് ഇതര സംഖ്യയ്ക്കും പകരം ഓരോ നോൺജെറോ സംഖ്യയ്ക്കും F ന് വിപരീതമുണ്ട് Q തന്നെ F അടങ്ങിയിരിക്കുന്നു കാരണം 1 n എല്ലാ നോൺജെറോ n നും ഉണ്ട് 1n ഉണ്ടെങ്കിൽ m by n അവിടെ ഉണ്ട് ഓരോ റാഷണൽ സംഖ്യയും ഉണ്ടായിരിക്കും Q തന്നെ F ൽ അടങ്ങിയിരിക്കുന്നു അത് ഒരു കേസാണ് കേർണൽ ഫൈ നോൺജെറോ ആണെങ്കിൽ ഇതിനർത്ഥം കേർണൽ ഫൈ ചില പ്രൈം നമ്പറിന് p Z ന് തുല്യമാണ് ഈ സാഹചര്യത്തിൽ ആദ്യത്തെ ഐസോമോർഫിസം സിദ്ധാന്തം എഫ് മോഡിൽ ഇസഡ് മോഡ് പി ഇസെഡ് ഉൾക്കൊള്ളുന്നു ഇസഡ് മോഡ് കേർണൽ ഐസോമോഫിക് ആണ് അതിനാണ് ഞാൻ ഇസഡ് മോഡ് പി z നെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇസഡ് മോഡ് പി ഇസഡ് എഫിൽ അടങ്ങിയിരിക്കുന്നു എഫ് കേസ് 1 ൽ ക്യുവും എഫ് എഫ് കേസ് 2 ൽ ഇസഡ് മോഡ് പി ഇസഡും അടങ്ങിയിരിക്കുന്നു ഇത് പരിഹാരം പൂർത്തിയാക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന എല്ലാ ഫീൽഡുകളും ചില p യ്ക്ക് F p ന്റെ അല്ലെങ്കിൽ Q ന്റെ വിപുലീകരണ ഫീൽഡാണ് ഓർക്കുക ഈ പരിഹാരം അതിൽ Q അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ F p അടങ്ങിയിരിക്കില്ല മറ്റ് പ്രൈം q ക്ക് F q അടങ്ങിയിരിക്കില്ല ഇത് കൃത്യമായി ഒന്നാണ് അടിസ്ഥാനപരമായി ഫീൽഡുകളുടെ ലോകം Q അല്ലെങ്കിൽ F 2 അല്ലെങ്കിൽ F 3 F 5 F 7 മുതലായവയ്ക്ക് മുകളിലാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫീൽഡുകൾ ഉണ്ട് നിങ്ങൾക്ക് ഇതിന് മുകളിൽ ഒരു ഫീൽഡുകൾ ഉണ്ട് ഇതിന് മുകളിലും അതിനുമുകളിലും നിങ്ങൾക്ക് ഒരു ഫീൽഡുകൾ ഉണ്ട് ഓരോ ഫീൽഡും Q അല്ലെങ്കിൽ F 2 അല്ലെങ്കിൽ F 3 ന് മുകളിലാണ് ഇത് യുണീക്ക് ആണ് ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല ഇവയെല്ലാം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ക്യാരക്റ്ററിസ്റ്റിക് 0 ആണെന്ന് നമ്മൾ പറയുന്നു ഈ സാഹചര്യത്തിൽ ക്യാരക്റ്ററിസ്റ്റിക് 2 ആണെന്ന് നമ്മൾ പറയുന്നു ഈ സാഹചര്യത്തിൽ ക്യാരക്റ്ററിസ്റ്റിക് 3 ആണെന്ന് നമ്മൾ പറയുന്നു ഈ സാഹചര്യത്തിൽ നമ്മൾ ക്യാരക്റ്ററിസ്റ്റിക് 5 ആണെന്ന് പറയുന്നു ഈ സാഹചര്യത്തിൽ നമ്മൾ ക്യാരക്റ്ററിസ്റ്റിക് 7 ആണെന്നും പറയുന്നു ക്യാരക്റ്ററിസ്റ്റിക് 0 ഉള്ള ഫീൽഡുകൾ എല്ലാം ക്യു ന് മുകളിലാണ് ക്യാരക്റ്ററിസ്റ്റിക് 2 ഫീൽഡുകൾ എല്ലാം എഫ് 2 ന് മുകളിലാണ് ജീവിക്കുന്നത് ഈ അടിയിലുള്ളവയെ പ്രൈം ഫീൽഡുകൾ എന്ന് വിളിക്കുന്നു എല്ലാ ഫീൽഡിന്റെയും അടിയിലുള്ളവയാണ് പ്രൈം ഫീൽഡുകൾ Q ഒന്നുകിൽ ഒരു ക്യാരക്റ്ററിസ്റ്റിക് 0 ഫീൽഡിന്റെ പ്രൈം ഫീൽഡ് Q പോലെയാണ് ഒരു ക്യാരക്റ്ററിസ്റ്റിക് 2 ഉള്ള ഫീൽഡിന്റെ പ്രൈം ഫീൽഡ് F 2 ആണ് ഒരു ക്യാരക്റ്ററിസ്റ്റിക് 11 ഉള്ള ഫീൽഡിന്റെ പ്രൈം ഫീൽഡ് F 11 ഉം മറ്റും ഓരോ ഫീൽഡും ഇതിന്റെ വിപുലീകരണമാണ് ഇത് ആദ്യ എക്സർസൈസ് ആണ് നമ്മൾക്ക് എല്ലാ ഫീൽഡും ഇതുപോലെയാണ് രണ്ടാമത്തെ എക്സർസൈസ് കെ ഒരു ഫീൽഡാകട്ടെ എഫ് പ്രൈം ഫീൽഡാകട്ടെ യുണീക്ക് ആയി നിർണ്ണയിക്കപ്പെട്ട പ്രൈം ഫീൽഡ് ഉണ്ടെന്ന് ഓർക്കുക കെ എൽ എന്നിവ രണ്ട് ഫീൽഡുകളായിരിക്കട്ടെ എഫ് അവരുടെ പ്രധാന ഫീൽഡാകട്ടെ നമുക്ക് കെ ഇവിടെയുണ്ട് എൽ ഇവിടെയുണ്ട് അവ രണ്ടും എഫ് ന് മുകളിലാണ് എഫ് വാസ്തവത്തിൽ എഫ് അല്ലെങ്കിൽ ക്യു അല്ലെങ്കിൽ എഫ് p F എന്നത് Q അല്ലെങ്കിൽ F p ആണ് നമ്മൾ ഏത് കേസാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ ആശ്രയിക്കാത്ത ഒരു എക്സർസൈസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എഫ് ഒരു അനിയന്ത്രിതമായ പ്രൈം ഫീൽഡാണ് കെ എൽ എന്നിവ രണ്ട് ഫീൽഡുകളാണ് നമ്മൾ ഫീൽഡ് ഹോമോമോർഫിസങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കെ മാപ്പ് കെ മുതൽ എൽ വരെയുള്ള ഏത് ഫീൽഡ് ഹോമോമോർഫിസം സിഗ്മയും എഫ് ഹോമോമോർഫിസം ആണെന്ന് കാണിക്കുക മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കെ മുതൽ എൽ വരെയുള്ള ഏത് ഫീൽഡ് ഹോമോമോർഫിസം സിഗ്മയും എയുടെ സിഗ്മയെ തൃപ്തിപ്പെടുത്തുന്നു എഫ് എന്നതിലെ എല്ലാത്തിനും തുല്യമാണ് എഫ് അനിയന്ത്രിതവും കെ എൽ എന്നിവ എഫിന്റെ രണ്ട് അനിയന്ത്രിതമായ ഫീൽഡ് എക്സ്റ്റൻഷനുകളാണെങ്കിൽ എല്ലാ ഹോമോമോർഫിസവും എഫ് ഹോമോമോർഫിസമല്ല ഇത് പ്രൈം ഫീൽഡുകൾക്കുള്ള ഒരു പ്രസ്താവന മാത്രമാണ് ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഞാൻ പരിഹാരം ആരംഭിച്ച് വിശദമായ പരിഹാരം നിങ്ങൾക്ക് നൽകും നമുക്ക് സിഗ്മ 1 1 ആയിരിക്കണം എന്നതാണ് കാര്യം ഇത് നമ്മൾക്ക് നിർബന്ധിതമാണ് കാരണം സിഗ്മ ഒരു റിംഗ് ഹോമോമോർഫിസമാണ് ഒരു ഫീൽഡ് ഹോമോമോർഫിസം യഥാർത്ഥത്തിൽ ഒരു റിംഗ് ഹോമോമോർഫിസം മാത്രമാണ് ഏതൊരു റിംഗ് ഹോമോമോർഫിസവും 1 1 വരെ അയയ്ക്കും 1 സിഗ്മ 1 എന്നത് 1 ആണ് സിഗ്മ n n ആണ് ഞാൻ ആദ്യം എഫ് കേസ് Q ന് തുല്യമായി പരിഗണിക്കാൻ പോകുന്നു സിഗ്മ n Z ലെ എല്ലാ n നും n ന് തുല്യമാണ് കാരണം സിഗ്മ 2 സിഗ്മ 1 ഉം സിഗ്മ 1 ഉം ആണ് അത് 2 ഉം 1 സിഗ്മ n ഉം സിഗ്മ സിഗ്മ m ബൈ n സിഗ്മ m ബൈ സിഗ്മ n ന് തുല്യമാണ് ആദ്യത്തെ പവർ അവസ്ഥ വ്യക്തമാണ് രണ്ടാമത്തെ അവസ്ഥയ്ക്ക് എന്താണ് നമുക്ക് n തവണ m കൊണ്ട് n എന്നത് m ആണ് ഇത് സൂചിപ്പിക്കുന്നത് സിഗ്മ n തവണ m കൊണ്ട് n എന്നത് സിഗ്മ m ന് തുല്യമാണ് ഇത് m ആണ് പൂർണ്ണസംഖ്യകളുടെ സിഗ്മയാണ് ആ സംഖ്യകൾ എന്ന് നിങ്ങൾ ഇതിനകം തെളിയിച്ചിട്ടുണ്ട് സിഗ്മ 1 1 ആയതിനാൽ ഇത് വ്യക്തമാണ് എന്നാൽ ഇതിനർത്ഥം സിഗ്മ ഒരു ഫീൽഡ് ഹോമോമോർഫിസമാണ് ഇതിനർത്ഥം n തവണ സിഗ്മയുടെ m ന്റെ n ന്റെ സിഗ്മ m ന് തുല്യമാണ് യഥാർത്ഥത്തിൽ ഞാൻ എഴുതേണ്ടത് mn ആണ് m ന്റെ സിഗ്മ m ആണ് n ന്റെ സിഗ്മ n ആണ് n ന്റെ സിഗ്മയുടെ n ന്റെ സിഗ്മ m ആണ് m ന്റെ n ന്റെ സിഗ്മ n ന്റെ സിഗ്മയാൽ m ന് തുല്യമാണ് ഞാൻ ഊഹിക്കുന്നു n ഇവിടെ പൂജ്യമല്ലാത്തതാണ് സിഗ്മ ഒരു ക്യൂ ഹോമോമോർഫിസമാണ് എഫ് പി എന്നതിന് വാദം ഇതിലും എളുപ്പമാണ് കാരണം എഫ് പി യഥാർത്ഥത്തിൽ 0 ബാർ 1 ബാർ പി മൈനസ് 1 ബാർ അല്ലാതെ മറ്റൊന്നുമല്ല 1 ബാറിന്റെ സിഗ്മ 1 ആണ് കാരണം 1 ഗുണിത ഐഡന്റിറ്റി സ്വയം പോകുന്നു ഒരു ബാറിന്റെ സിഗ്മ എല്ലാ ബാറിനും ഒരു ബാർ ആണ് കാരണം അവയിൽ ഓരോന്നും പലതവണ സ്വയം ചേർത്തിട്ടുണ്ട് ഇത് പരിഹാരം പൂർത്തിയാക്കുന്നു എക്സ്റ്റെൻഷനുകളുടെ ഏതെങ്കിലും ഹോമോമോർഫിസം ഫീൽഡ് എക്സ്റ്റൻഷനുകളിലാണ് വാസ്തവത്തിൽ പ്രൈം ഫീൽഡിനെ അപേക്ഷിച്ച് ഒരു ഹോമോമോർഫിസം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എഫ് ക്യു അല്ലെങ്കിൽ ഇസഡ് മോഡ് പി ഇസഡ് ആയിരിക്കണം അല്ലാത്തപക്ഷം അത് ശരിയല്ല ഇത് ക്യൂ അല്ലെങ്കിൽ എഫ് പി എന്ന് പ്രത്യേകം പരിശോധിക്കേണ്ട ആവശ്യമില്ലെന്ന് അറിയുന്നത് ഒരു നല്ല കാര്യമാണ് മൂന്നാമത്തെ എക്സർസൈസ് വളരെ ലളിതമാണ് കെ ഓവർ എഫ് ഡിഗ്രി പി യുടെ ഫീൽഡ് എക്സ്റ്റൻഷനായിരിക്കട്ടെ ഇവിടെ പി ഒരു പ്രൈം ഇൻറിജറാണ് പിന്നെ ഇന്റർമീഡിയറ്റ് ഫീൽഡുകളൊന്നുമില്ല അതായത് ഞാൻ അർത്ഥമാക്കുന്നത് എഫ് കെയിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ എൽ എഫ് അല്ലെങ്കിൽ എൽ കെ ന് തുല്യമാണ് ഞാൻ ശരിക്കും അർത്ഥമാക്കുന്നത് ശരിയായ ഇന്റർമീഡിയറ്റ് ഫീൽഡുകൾ ഇല്ല എന്നതാണ് കെ ഇവിടെയുണ്ട് ഇവിടെ കെ എഫ് എന്നിവയല്ലാതെ മറ്റൊന്നും ഇല്ല തീർച്ചയായും ഇത് വളരെ ലളിതമാണ് കാരണം കെഎഫ്എൽ ഇതിനിടയിലാണെങ്കിൽ പി എന്ന് നമുക്കറിയാം ഇത് ബി p എന്നത് ab ന് തുല്യമാണെന്ന് നമുക്കറിയാം p എന്നത് ഒരു ബിക്ക് തുല്യമാണെന്ന് നമുക്കറിയാം പക്ഷേ പി പ്രൈമാണ് a എന്നത് 1 ന് തുല്യമാണ് അല്ലെങ്കിൽ ഏതൊരു പ്രൈം നമ്പറിനും നിസ്സാരമല്ലാത്ത ഘടകങ്ങൾ നൽകാനാവില്ല a 1 ന് തുല്യമാണെങ്കിൽ K എന്നത് L ന് തുല്യമാണ് b 1 ന് തുല്യമാണെങ്കിൽ അതിനർത്ഥം L എന്നത് F ന് തുല്യമാണ് അതും ഈ പ്രശ്നത്തിന്റെ പരിഹാരം പൂർത്തിയാക്കുന്നു നിങ്ങൾക്ക് ഒരു പ്രൈം ഡിഗ്രി എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ ശരിയായ ഇന്റർമീഡിയറ്റ് ഫീൽഡുകൾ ഇല്ല സമാനമായ ഒരു ഉദാഹരണം കൂടി ചെയ്യട്ടെ കെ ഓവർ എഫ് ഒരു ഫീൽഡ് എക്സ്റ്റൻഷനായിരിക്കട്ടെ പ്രൈം ഫീൽഡ് എന്താണെന്നതിനെക്കുറിച്ച് ഞാൻ ഒന്നും ഊഹിക്കുന്നില്ല ഇത് ഏതെങ്കിലും പ്രൈം ഫീൽഡിനായി പ്രവർത്തിക്കുന്നു കെ ഓവർ എഫ് ഒരു ഫീൽഡ് എക്സ്റ്റൻഷനായിരിക്കട്ടെ കെയിലെ ആൽഫ എഫ് ന് മുകളിൽ അൾജിബ്രായിക്ക് ആകട്ടെ F ഓവർ ആൽഫയുടെ ഡിഗ്രി ഓഡ് ആണെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നത് എഫ് ആൽഫ എഫ് ആൽഫ സ്ക്വയറിന് തുല്യമാണ് ഇത് ശരിക്കും ഡിഗ്രിയുടെ ഗുണിതത്തിന്റെ അനന്തരഫലമാണ് പക്ഷേ അല്പം വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം നമ്മൾക്ക് കെ ഉണ്ട് അത് യഥാർത്ഥത്തിൽ പ്രസക്തമല്ല എഫ് ആൽഫ എഫ് ആൽഫ സ്ക്വയർ എഫ് ആൽഫ എഫ് എന്നിവയിൽ നമ്മൾക്ക് താൽപ്പര്യമുണ്ട് ആൽഫ സ്ക്വയറിൽ തീർച്ചയായും എഫ് ആൽഫ അടങ്ങിയിരിക്കുന്നതായി ഓർക്കുക കാരണം ആൽഫ സ്ക്വയർ ഇവിടെയുണ്ട് ആൽഫ സ്ക്വയർ ആൽഫയിലെ ഒരു പോളിനോമിയലാണ് എഫ് ലെ ഗുണകങ്ങളാണുള്ളത് അതായത് ഇത് ഒരു തവണ ആൽഫ സ്ക്വയറാണ് അത് അവിടെയുണ്ട് എഫ് ആൽഫ സ്ക്വയർ ഒരു ഉപഫീൽഡാണ് നമുക്ക് എന്താണ് അറിയാവുന്നത് ഓഡ് ഡിഗ്രിയുള്ള F ൽ ആൽഫ അൾജിബ്രായിക്ക് ആണെന്ന് നമുക്കറിയാം എഫ് ആൽഫ കോളൻ എഫ് ഓഡ് ആണ് കാരണം ഒരൊറ്റ എലമെന്റ് സൃഷ്ടിച്ച അൾജിബ്രായിക്ക് വിപുലീകരണത്തിന്റെ ഡിഗ്രി വീണ്ടും ഓർക്കുക ആൽഫ എലമെന്റിന്റെ ഡിഗ്രിക്ക് തുല്യമാണ് ഇത് ഓഡ് ആണ് മറുവശത്ത് എഫ് ആൽഫ സ്ക്വയറിനു മുകളിലുള്ള എഫ് ആൽഫയുടെ ഡിഗ്രി 2 നേക്കാൾ കുറവോ തുല്യമോ ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നു തീർച്ചയായും ഇത് 1 ന് തുല്യമാണ് ഒരു ഫീൽഡ് എക്സ്റ്റൻഷന്റെ ഏത് ഡിഗ്രിക്കും പോസിറ്റീവ് ഡിഗ്രി ഉണ്ടാകും അതിന് കഴിയില്ല ഡിഗ്രി കുറവാണ് ഇത് ഒന്നുകിൽ കുറഞ്ഞത് ഒന്നായിരിക്കാം ഇത് ഇവിടെ പരമാവധി 2 ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നു കാരണം ആൽഫ ഒരു ഡിഗ്രി 2 പോളിനോമിയലിനെ തൃപ്തിപ്പെടുത്തുന്നു എഫ് ആൽഫ സ്ക്വയറിനേക്കാൾ ഒരു ഡിഗ്രി 2 പോളിനോമിയലിനെ ആൽഫ തൃപ്തിപ്പെടുത്തുന്നു എന്നതാണ് മുകളിലെ പരിധിക്ക് കാരണം അതായത് എക്സ് സ്ക്വയേർഡ് മൈനസ് ആൽഫ സ്ക്വയർ ഇത് എഫ് ആൽഫ സ്ക്വയേർഡ് ഫീൽഡിന് മുകളിലുള്ള റിംഗിന് മുകളിലുള്ള ഒരു പോളിനോമിയലാണ് കാരണം ആൽഫ സ്ക്വയർ എഫ് ആൽഫ സ്ക്വയറിന്റെ ഒരു ഘടകമാണ് ഇത് ഡിഗ്രി 2 ന്റെ പോളിനോമിയലാണ് നിങ്ങൾ ഇതിന് തുല്യമായ എഫ് എടുക്കുകയാണെങ്കിൽ എഫ് ആൽഫ എന്താണ് ഇത് ആൽഫ സ്ക്വയേർഡ് മൈനസ് ആൽഫ സ്ക്വയറാണ് ഇത് 0 ആണ് ആൽഫ ഒരു ഡിഗ്രി 2 പോളിനോമിയലിനെ തൃപ്തിപ്പെടുത്തുന്നു എഫ് ആൽഫ സ്ക്വയറിനു മുകളിലുള്ള ആൽഫയുടെ ഡിഗ്രി 1 അല്ലെങ്കിൽ 2 ആണ് ഇത് 2 ആയിരിക്കില്ല കാരണം ആൽഫ തന്നെ എഫ് ആൽഫ സ്ക്വയറിലായിരിക്കാം ഇത് 1 ആകാം പക്ഷേ ഇത് 2 ൽ കൂടുതലാകരുത് കാരണം ഇത് ഒരു ഡിഗ്രി 2 പോളിനോമിയലിനെ തൃപ്തിപ്പെടുത്തുന്നു പക്ഷേ ഇത് 2 ആണെന്ന് കരുതുക അതായത് എഫ് ആൽഫ കോളൻ എഫ് ആൽഫ സ്ക്വയർ 2 ആണ് എന്നാൽ ഇത് ശരിയായി സാധ്യമല്ല കാരണം 2 വിഭജിക്കുന്നു എഫ് ആൽഫ കോളൻ എഫ് ഓഡ് ആയതിനാൽ എഫ് ആൽഫയുടെ ഡിഗ്രി എഫ് സാധ്യമല്ല എഫ് ആൽഫ കോളൻ എഫ് ആൽഫ സ്ക്വയർ 1 ആണ് അത് ഒന്നോ രണ്ടോ ആണ് അത് 2 ആകാൻ പാടില്ല ഇത് 1 ആയിരിക്കണം അതിനർത്ഥം എഫ് ആൽഫ എഫ് ആൽഫ സ്ക്വയറിന് തുല്യമാണ് ഇവിടെ ഒരു ചെറിയ നിരീക്ഷണം ഉണ്ട് നിങ്ങൾക്ക് ഒരു ഫീൽഡ് എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ കെ ഓവർ എഫ് ഒരു ഫീൽഡ് എക്സ്റ്റൻഷനായിരിക്കട്ടെ അതിനർത്ഥം കെ മറ്റൊരു ഫീൽഡ് അടങ്ങിയ ഒരു ഫീൽഡാണ് കെ എഫിന് തുല്യമാണെങ്കിൽ കെ കോളൻ എഫ് ഡിഗ്രി 1 ആണ് എഫ് ആൽഫ കോളൻ എഫ് ആൽഫ സ്ക്വയർ 1 ആണ് അതിനർത്ഥം എഫ് ആൽഫ എഫ് ആൽഫ സ്ക്വയറിന് തുല്യമാണ് നമുക്കുള്ളത് ഇത് തുല്യമാണ് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു നല്ല സൌകര്യപ്രദമായ പ്രസ്താവനയാണ് നിങ്ങൾക്ക് ഒരു അൾജിബ്രായിക്ക് മൂലകമുണ്ടെങ്കിൽ ആരുടെ ഡിഗ്രി ഓഡ് ആണ് എങ്കിൽ അതിന്റെ സ്ക്വയർ സൃഷ്ടിച്ച ഫീൽഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതേ ഫീൽഡാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പ്രശ്നങ്ങൾ തുടരാം ഇത് നാലാമത്തെ പ്രശ്നമാണ് നമുക്ക് അഞ്ചാമത്തെ പ്രശ്നം ചെയ്യാം ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടത് മൂന്ന് ഫീൽഡുകൾ എടുക്കാം എഫ് അടങ്ങിയ എൽ അടങ്ങിയ കെ അൾജിബ്രായിക്ക് ഫീൽഡ് എക്സ്റ്റൻഷനുകളാണെന്ന് നമുക്ക് പറയാം നമുക്കുള്ളത് കെ ഓവർ എൽ ആണ് ഞാൻ ഇത് കെ ഓവർ എൽ ഓവർ എഫ് എന്ന് എഴുതാം കെ ഓവർ എൽ എൽ ഓവർ എഫ് അൾജിബ്രായിക്ക് ആണെന്ന് കരുതുക കെ ഓവർ എഫ് അൾജിബ്രായിക്ക് ആണ് ഞാൻ പറയുന്നത് ഇത് അൾജിബ്രായിക്ക് ആണ് രണ്ട് ഇന്റർമീഡിയറ്റ് എക്സ്റ്റൻഷനുകളും അൾജിബ്രായിക്ക് ആണ് വലിയ വിപുലീകരണം അൾജിബ്രായിക്ക് ആണെന്ന് കാണിക്കുന്നു ഇതും എളുപ്പമാണ് മുമ്പത്തെ വീഡിയോകളിലൊന്നിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഉപയോഗിക്കുന്നു ഒരു അൾജിബ്രായിക്ക് വിപുലീകരണം എന്താണെന്ന് നമ്മൾ കാണിക്കേണ്ടതുണ്ട് ഇത് ഓരോ എലമെന്റും അൾജിബ്രായിക്ക് ആണ് കെ യുടെ ഓരോ എലമെന്റും നമുക്ക് അനിയന്ത്രിതമായ ഒരു ഘടകം എടുക്കാം കെയിലെ ആൽഫ ഒരു ഘടകമായിരിക്കട്ടെ അത് F ൽ അൾജിബ്രായിക്ക് ആണെന്ന് കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ആൽഫ F ൽ അൾജിബ്രായിക്ക് ആണെന്ന് നമ്മൾ കാണിക്കും അതാണ് നമ്മുടെ ലക്ഷ്യം ആ ആൽഫ എൽ അൾജിബ്രായിക്ക് ആണെന്ന് നമുക്കറിയാം അതായത് കെ യുടെ ഓരോ എലമെന്റും L നെക്കാൾ അൾജിബ്രായിക്ക് ആണ് F X ആൽഫ 0 ആയ L X ൽ ഒരു പോളിനോമിയൽ എഫ് ഉണ്ട് L ലെ ഗുണകങ്ങളുള്ള ഒരു പോളിനോമിയൽ ഉണ്ട് അതിൽ ആൽഫയെ ഒരു റൂട്ടായി കണക്കാക്കുന്നു നമുക്ക് എഫ് പവർ എൻ ഒരു മൈനസ് 1 എക്സ് പവർ എൻ മൈനസ് 1 1 എക്സ് പ്ലസ് എ 0 എന്നിങ്ങനെ ai കൾ എയിലുണ്ടെന്ന് ഓർക്കുക F അതിനർത്ഥം L ന്റെ ഓരോ എലമെന്റും F ക്കാൾ അൾജിബ്രായിക്ക് ആണ് ഇപ്പോൾ നമുക്ക് പുതിയ ഫീൽഡിനെ L പ്രൈം എന്ന് വിളിക്കാം എഫ് 1 നെ 1 അല്ലെങ്കിൽ മറ്റൊന്ന് 0 1 2 ഒരു n മൈനസ് 1 വരെ ഇത് എഫിനേക്കാൾ അൾജിബ്രായിക്ക് ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നു അപ്പോൾ എന്താണ് എൽ പ്രൈം എൽ പ്രൈം എഫ് ആണ് ഇത് മുമ്പത്തെ വീഡിയോകളിലൊന്നിൽ നമ്മൾ ചെയ്തു എൽ പ്രൈം എഫ് ഒരു 0 എ n മൈനസ് 1 ന് സമീപമാണ് പക്ഷേ അവ ഓരോന്നും ഒരു അൾജിബ്രായിക്ക് ഘടകമാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ 1 ബൈ 1 അറ്റാച്ചുചെയ്യാം നിങ്ങൾക്ക് ഇവയുണ്ട് ഇത് അൾജിബ്രായിക്ക് ആണ് കാരണം 0 എന്നത് F ൽ അൾജിബ്രായിക്ക് ആണ് 0 എന്നത് എൽ എൽ എന്നിവയുടെ എലമെന്റാണ് എഫിന്റെ അൾജിബ്രായിക്ക് വിപുലീകരണം 0 എഫ് അൾജിബ്രായിക്ക് ആണ് ഇത് അൾജിബ്രായിക്ക് ആണ് ഇത് ഒരു എലമെന്റ് സൃഷ്ടിക്കുന്ന അൾജിബ്രായിക്ക് വിപുലീകരണമാണ് അതുപോലെ 1 എന്നത് F ൽ അൾജിബ്രായിക്ക് ആണ് തീർച്ചയായും എഫ് 1 ന് അൾജിബ്രായിക്ക് ആണ് ഇത് ഇവിടെ ഫൈനൈറ്റ് ആണ് എഫ് പ്രൈം ഓവർ എഫ് ഫൈനൈറ്റ് ആണ് എന്നാൽ ഒരു ഫൈനൈറ്റ് വിപുലീകരണം അൾജിബ്രായിക്ക് ആണ് അത് ഫൈനൈറ്റ് ആണ് ഇപ്പോൾ നമുക്ക് ഉള്ളത് കെ ആണെന്ന് മാറ്റിവെക്കാം യഥാർത്ഥത്തിൽ നമ്മുടെ കൈവശമുള്ളത് കെ എൽ പ്രൈം എഫ് എൽ പ്രൈം എൽ എന്നിവ അടങ്ങിയിരിക്കുന്നു പൂർണ്ണ ചിത്രം ഈ കെ എൽ എൽ പ്രൈം ഓവർ എഫ് പോലെയാണ് എൽ പ്രൈം മാത്രമാണ് ജനറേറ്റുചെയ്തതെന്ന് ഓർക്കുക എൽ പ്രൈമിന്റെ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്നില്ല അതിൽ ഈ പ്രത്യേക ചെറിയ എഫിന്റെ ഈ ഗുണകങ്ങൾ മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ നമ്മൾ കാണിച്ചത് ഇത് ഫൈനൈറ്റ് ആണ് എൽ പ്രൈമിനേക്കാൾ ആൽഫ അൾജിബ്രായിക്ക് ആണെന്ന് ഞാൻ ഇപ്പോൾ അവകാശപ്പെടുന്നു നമുക്ക് അറിയാവുന്ന L നെക്കാൾ ആൽഫ അൾജിബ്രായിക്ക് ആണ് പക്ഷേ വാസ്തവത്തിൽ ഇത് L പ്രൈമിനേക്കാൾ അൾജിബ്രായിക്ക് ആണ് കാരണം ആൽഫ തൃപ്തിപ്പെടുത്തുന്ന പോളിനോമിയൽ വാസ്തവത്തിൽ ആൽഫ എൽ പ്രൈംന് മുകളിലാണ് ജീവിക്കുന്നത് കാരണം എൽ പ്രൈം നിർമ്മിച്ചതാണ് ഇവിടെ നമുക്ക് ഉള്ള ഈ എഫ് അതിന്റെ ഗുണകങ്ങൾ L ൽ ഒരു പ്രിയോറിയാണ് വാസ്തവത്തിൽ L പ്രൈമിനേക്കാൾ കൂടുതലാണ് കാരണം 0 1 2 മൈനസ് 1 എന്നിവയെല്ലാം എൽ പ്രൈമിലാണ് ഇത് എൽ പ്രൈമിനേക്കാൾ അൾജിബ്രായിക്ക് ആണ് എൽ പ്രൈം ആൽഫ ഓവർ എൽ എന്നത് ഒരു ഫൈനൈറ്റ് വിപുലീകരണമാണ് എൽ പ്രൈം ഓവർ എൽ പ്രൈം ഫൈനൈറ്റ് ആണ് എനിക്ക് ഉള്ളത് എൽ പ്രൈം ആൽഫ ഫൈനൈറ്റ് ആണ് കാരണം ഇത് വീണ്ടും ഫൈനൈറ്റ് ആണ് ഇത് ഒരൊറ്റ എലമെന്റ് സൃഷ്ടിച്ച അൾജിബ്രായിക്ക് വിപുലീകരണമാണ് ഇത് ആൽഫയുടെ ഡിഗ്രിയാണ് ഇത് ഫൈനൈറ്റ് ആണ് ഇപ്പോൾ ഇത് ഫൈനൈറ്റ് ആണ് എഫിന് മുകളിലുള്ള എൽ പ്രൈം ആൽഫ ഫൈനൈറ്റ് ആണ് കാരണം എഫ് പ്രൈമിന് മുകളിലുള്ള എൽ പ്രൈം ആൽഫ എൽ പ്രൈമിനേക്കാൾ എൽ പ്രൈം എഫ് ഡോട്ട് എൽ പ്രൈം ആൽഫയാണ് ഇത്തവണ ഇത് എഫ് പ്രൈമിനേക്കാൾ എൽ പ്രൈം ആൽഫയാണ് എഫിന് മുകളിലുള്ള എൽ പ്രൈം ആൽഫ ഫൈനൈറ്റ് ആണെങ്കിൽ അതിനർത്ഥം ആൽഫ എഫ് അൾജിബ്രായിക്ക് ആണ് കാരണം എൽ പ്രൈം ആൽഫ സൃഷ്ടിച്ച ഫീൽഡ് യഥാർത്ഥത്തിൽ മറ്റൊന്നുമല്ല ഇത് ഒരു ഫൈനൈറ്റ് വിപുലീകരണമാണ് ഇത് F ൽ അൾജിബ്രായിക്ക് ആണ് അതിനർത്ഥം നമ്മൾ കാണിച്ചത് ഒരു ഫൈനൈറ്റ് വിപുലീകരണത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് അതിനർത്ഥം ഇത് അൾജിബ്രായിക്ക് ആണ് ആൽഫ ഒരു ഏകപക്ഷീയമായ ഘടകമാണെന്ന് ഓർമ്മിക്കുക ഇത് F ൽ അൾജിബ്രായിക്ക് ആണെന്ന് നമ്മൾ തെളിയിച്ചു കെ F നെക്കാൾ അൾജിബ്രായിക്ക് ആണ് ആ പ്രശ്നത്തിന്റെ പരിഹാരം പൂർത്തിയാക്കുന്നു നമ്മൾ കാണിച്ചത് നിങ്ങൾക്ക് രണ്ട് ഫീൽഡ് എക്സ്റ്റെൻഷനുകൾ ഉണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫൈനൈറ്റ് ആണ് ഇന്റർമീഡിയറ്റ് അൾജിബ്രായിക്ക് ആണ് വലുത് അൾജിബ്രായിക്ക് ആണ് തീർച്ചയായും എല്ലാം അൾജിബ്രായിക്ക് ആണെങ്കിൽ രണ്ട് ഇന്റർമീഡിയറ്റ് കാര്യങ്ങളും അൾജിബ്രായിക്ക് ആണെന്നത് നിസ്സാര വസ്തുതയാണ് നിങ്ങൾക്ക് എഫ് അടങ്ങിയിരിക്കുന്ന കെ ഉണ്ടെങ്കിൽ എഫ് കെ ഓവർ എഫ് അൾജിബ്രായിക്ക് ആണ് ഇത് വളരെ എളുപ്പമാണ് കെ ഓവർ എൽ അൾജിബ്രായിക്ക് എൽ ഓവർ എഫ് അൾജിബ്രായിക്ക് ആണ് കെ സൈറ്റ് ആയതിനാൽ കെ യുടെ ഓരോ ഘടകവും F ൽ ഒരു പോളിനോമിയൽ ബന്ധത്തെ തൃപ്തിപ്പെടുത്തുന്നു ഇത് L നെ അപേക്ഷിച്ച് ഒരു പോളിനോമിയൽ ബന്ധത്തെ യാന്ത്രികമായി തൃപ്തിപ്പെടുത്തുന്നു അതുപോലെ L ന്റെ ഓരോ എലമെന്റും K യുടെ ഒരു ഘടകമാണ് ഇത് F നെക്കാൾ ഒരു പോളിനോമിയൽ ബന്ധത്തെ തൃപ്തിപ്പെടുത്തുന്നു ഇതും അൾജിബ്രായിക്ക് ഇത് എളുപ്പമാണ് നിങ്ങൾക്ക് ഇപ്പോൾ മൂന്ന് ഫീൽഡുകളുണ്ടെന്നും അവ ഒരു ഗോപുരം ഉണ്ടാക്കുന്നുവെന്നും പറയുന്നതായി നിങ്ങൾക്ക് ഇപ്പോൾ ഓർമിക്കാം ഇന്റർമീഡിയറ്റ് കാര്യങ്ങൾ അൾജിബ്രായിക്ക് ആണെങ്കിൽ മാത്രമേ മുഴുവൻ കാര്യങ്ങളും അൾജിബ്രായിക്ക് ആകൂ ഇതുവരെ നമ്മൾ ചില പ്രശ്നങ്ങൾ ചെയ്തു ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താൻ പോകുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും